എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഇൻഡിറ്റർമിനേറ്റ് ഫോമുകളാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോമുകൾ ഈ ആശയങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത് അത്തരമൊരു ഫോമുകൾ നിർണ്ണയിക്കാൻ ആവശ്യമായ വളരെ അടിസ്ഥാന തത്വമായ എൽ ഹോസ്പിറ്റലിന്റെ L' Hospital ലാപ്പിത്താൾ എന്നാണ് ഇതിന്റെ ഉച്ചാരണം നിയമങ്ങളും ചിലത് ഉദാഹരണങ്ങളും ഞാൻ ഇൻഡിറ്റർമിനേറ്റ് ഫോമുകൾ തുടങ്ങുന്നതിനുമുമ്പ് മുൻ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്ത സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം അല്ലെങ്കിൽ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം എന്നിവ പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കുക ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ കണ്ടിന്യൂവസ് ആയ ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡിഫറെൻഷ്യബിൾ ആയ f g എന്നീ രണ്ട് ഫംഗ്ഷനുകളും വ്യത്യാസമുണ്ടെങ്കിൽ g യുടെ ഡെറിവേറ്റീവ് g' ഇടവേളയ്ക്കുള്ളിൽ എവിടെയും അപ്രത്യക്ഷമാകുന്നില്ലെങ്കിൽ യോട് തുല്യമാകുന്ന ഡെറിവേറ്റീവ് ഉള്ള ഒരു പോയിന്റ് c ഓപ്പൺ ഇടവേള a b യിൽ ഉണ്ട് ഈ പൊതുവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം ഇന്ന് പലതും തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കും ഇൻഡിറ്റർമിനെറ്റ് ഫോംസ് എന്തൊക്കെയാണ് ഉദാഹരണത്തിന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പോലെ പരിഗണിക്കാം x 1 ആയിരിക്കുമ്പോൾ ഇവ വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ x 1 എന്നതിന് പകരമായി നൽകിയാൽ 0 ഇവിടെ എത്തി 0 കൊണ്ട് ഹരിക്കുന്നു അതുപോലെ ഇവിടെയും നമുക്ക് 00 ലഭിക്കുന്നു ഈ സന്ദർഭങ്ങളിൽ നമുക്ക് x 1 എന്നതിന് പകരം വയ്ക്കാനും ഇവിടെ നൽകിയിരിക്കുന്ന ഈ പദപ്രയോഗങ്ങളുടെ മൂല്യം നേടാനും കഴിയില്ല x 0 ആയിരിക്കുമ്പോൾ ന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ x 0 ഇടുകയാണെങ്കിൽ 1 - cos 0 വീണ്ടും 0 0 കൊണ്ട് ഹരിക്കുന്നു നമുക്ക് മറ്റൊരു 00 ഫോം ഉണ്ട് അത് x 0 എന്നതിന് പകരമായി നേരിട്ട് വിലയിരുത്താൻ കഴിയില്ല ചോദ്യം f g എന്നിവ രണ്ടും 0 ആയിരിക്കുമ്പോൾ f g എന്ന അനുപാതത്തിന് എന്ത് സംഭവിച്ചു f g എന്നിവ രണ്ടും ഈ ഉദാഹരണങ്ങളിൽ നാം പരിഗണിച്ച സാഹചര്യങ്ങളാണിവ ഇവ 0 ആയി മാറുന്നു ഇപ്പോൾ ഈ പദപ്രയോഗങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉദാഹരണത്തിന് ഈ ഫോം ഇവിടെ കാണാം x 1 ലേക്ക് പോകുമ്പോൾ നാം ലിമിറ്റ് എടുക്കുമ്പോൾ ഈ പദപ്രയോഗത്തിൽ നമുക്ക് x 1 എന്ന് പകരം വയ്ക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് ലിമിറ്റ് സംസാരിക്കാം 1 ആയി വരും രണ്ടാമത്തെ കേസിൽ ന്യൂമറേറ്ററിൽ നിന്ന് ഈ x 1 റദ്ദാക്കുന്നതിലൂടെ ഇത് 1 ന് നേടാനാകും കാരണം ഈ ന്യൂമറേറ്ററിന് x 1 x 1 എന്നിവ പോലെ എഴുതാൻ കഴിയും ഈ x 1 ഉപയോഗിച്ച് ഈ x 1 റദ്ദാക്കപ്പെടും തുടർന്ന് ഈ ലിമിറ്റ് 2 ആയിരിക്കും ഈ ലിമിറ്റ് 0 ആണെന്ന് നമുക്ക് പിന്നീട് പ്രഭാഷണത്തിൽ കാണാനാകും ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഈ ഫോമുകൾ 00 ഫോമുകളാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ അവയുടെ ലിമിറ്റ് വ്യത്യസ്തമാണ് ആദ്യ കേസിൽ ഇത് 1 ആണ് ഇവിടെ ഇത് 2 ഉം മൂന്നാമത്തേത് 0 ഉം ആണ് ഈ ഇൻഡിറ്റർമിനേറ്റ് പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണും അവ 00 പോലെ ദൃശ്യമാകാം മറ്റ് സാധ്യതകൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും ആണ് എന്നതാണ് നമ്മൾക്ക് ∞ അല്ലെങ്കിൽ 0 × ഫോം ഉണ്ട് ∞ പോലുള്ള മറ്റ് അനിശ്ചിത ഫോമുകളുണ്ട് അല്ലെങ്കിൽ ഈ എക്സ്പോണന്റ് ഫോമിൽ 00 ഇവയെല്ലാം ഇൻഡിറ്റർമിനേറ്റ് രൂപമാണ് ഉദാഹരണത്തിന് 0 അല്ലെങ്കിൽ 1∞ ∞ ന്റെ മൂല്യം എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല ഇവിടെ ഒരു അഭിപ്രായമുണ്ടായിരുന്നു ഈ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ അവ ഇൻഡിറ്റർമിനെറ്റ് ഫോംസ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ∞ × ∞ ∞ ∞ ∞∞ അല്ലെങ്കിൽ ∞ ∞ കൂടാതെ ഈ ഫോമുകൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമുകളല്ലെന്നും ഈ പദപ്രയോഗങ്ങളുടെ മൂല്യം നമുക്ക് നേരിട്ട് കണ്ടെത്താൻ കഴിയുമെന്നും ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഇത് 0∞ ന്റെ മൂല്യം എന്താണ് ഇത് വെറും 0 ഉം ∞ × ∞ നിങ്ങൾ സ്വാഭാവികമായും രണ്ട് വലിയ സംഖ്യകളും ഗുണിക്കുമ്പോൾ ∞ ലഭിക്കും വീണ്ടും ഇവിടെ ∞ ∞ വീണ്ടും ∞∞ ∞ ആയിത്തീരും അതേ കാരണത്താൽ ഇതും ∞ ആയിരിക്കും കൂടാതെ ∞ ∞ നമുക്ക് ഇത് 1∞∞ എന്ന് മാറ്റിയെഴുതാം തുടർന്ന് അത് 0 ആണ് ഈ ഫോമുകൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമുകളല്ല കണക്കുകൂട്ടലുകളിൽ അത്തരം പദപ്രയോഗങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് നേരിട്ട് ഈ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കാം പക്ഷേ 00 ∞ × 0 0 × ∞ ഈ കേസുകളെല്ലാം ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില മൂല്യങ്ങൾ അനുസരിച്ച് ആ മൂല്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അത് വ്യക്തമല്ല ഉദാഹരണത്തിന് ∞ × ∞ ന്റെ മൂല്യം എന്താണ് അത്തരമൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമുകൾ നിർണ്ണയിക്കുന്നതിനുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ് എൽ ഹോസ്പിറ്റൽ റൂൾ ഇവിടെ എന്താണ് നമുക്ക് പോകേണ്ടത് ഈ f g എന്നിവ രണ്ട് ഫംഗ്ഷനുകളാണെന്നും ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ കണ്ടിന്യൂവസ് ആയ a b ആണെന്നും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഈ g' g ന്റെ ഡെറിവേറ്റീവ് ഇടവേളയ്ക്കുള്ളിൽ എവിടെയും അപ്രത്യക്ഷമാകില്ല ഈ അവസ്ഥകളെല്ലാം ഇന്ന് നമ്മൾ കണ്ട കോഷി മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ പൊതുവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ വ്യവസ്ഥകളാണ് ഈ നിബന്ധനകൾക്ക് പുറമേ നമുക്ക് f 0 പോലെയാണെങ്കിൽ ഫംഗ്ഷൻ മൂല്യം a ൽ 0 ഉം രണ്ടാമത്തെ ഫംഗ്ഷൻ g ഉം ഈ ഘട്ടത്തിൽ മൂല്യം 0 ആയി എടുക്കുന്നു a ഈ ലിമിറ്റ് നമ്മൾ x → a ആയി വിലയിരുത്തണമെങ്കിൽ സ്വാഭാവികമായും വലതുഭാഗത്ത് നിന്ന് ഒരു ക്രമീകരണം ശരിയായ ലിമിറ്റ് x → a f g ആയി ക്രമീകരിക്കുക എന്ന ഈ എൽ ഹോസ്പിറ്റൽ നിയമത്തിന്റെ തെളിവിൽ നമ്മൾ കാണും x → a fg എന്ന് പറയുന്ന ഈ അനുപാതം ഇവിടെ നേരിട്ട് കാണുന്നു ഇത് 00 ഫോം പോലെയാണ് എന്നാൽ നിങ്ങൾ ഈ ലിമിറ്റ് എടുക്കുകയും ഈ നിയമം ഈ ലിമിറ്റ് എന്ന് പറയുകയും ചെയ്താൽ ഈ പരിമിതപ്പെടുത്തൽ മൂല്യം ഈ പരിമിത മൂല്യത്തിന് തുല്യമാണ് ഇത് ഡെറിവേറ്റീവുകളുടെ അനുപാതമാണ് ഇത് ഡെറിവേറ്റീവുകളുടെ മറ്റൊരു ആപ്ലിക്കേഷനാണ് സ്വാഭാവികമായും ഈ ലിമിറ്റ് ഡെറിവേറ്റീവുകളുടെ ലിമിറ്റ് നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നിലവിലില്ലെങ്കിൽ ഇത് അർത്ഥമാക്കുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ ഘട്ടത്തിലേക്ക് വരും ഈ ലിമിറ്റ് നിലവിലില്ലാത്ത ഒരു ഉദാഹരണം നമ്മൾ കാണും പക്ഷേ അതിനർത്ഥം f g ന്റെ ലിമിറ്റ് നിലവിലില്ല എന്നാണ് ഇവിടെയുള്ള ചട്ടം ഇതാണ് അത്തരം ലിമിറ്റ്കൾ ഡെറിവേറ്റീവുകളുടെ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫംഗ്ഷനുകളുടെ ഈ അനുപാതത്തിന്റെ ലിമിറ്റ്ക്ക് തുല്യമായിരിക്കും നിങ്ങൾ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എൽ ഉപയോഗിക്കുകയാണെങ്കിൽ തെളിവ് വളരെ ലളിതമാണ് അത് ഇന്ന് സംഗ്രഹിച്ചിരിക്കുന്നു നമുക്ക് f g എന്നീ രണ്ട് ഫംഗ്ഷനുകൾ ഉള്ളപ്പോൾ ഇത് കോഷി മീൻ വാല്യൂ സിദ്ധാന്തമാണ് തുടർന്ന് f f g g എന്നിവ f ξ g ξ ആയിരിക്കും a നും x നും ഇടയിൽ എവിടെയോ സ്ഥിതിചെയ്യുന്നു ഇന്റെർവെല്ലിൽ x ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട് x സ്വാഭാവികമായും a ന് തുല്യമല്ല തുടർന്ന് ഇന്റെർവെല്ലിൽ a മുതൽ x ശരി വരെ ഈ സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ പ്രയോഗിച്ചു a എന്നതിലെ ഫംഗ്ഷന്റെ മൂല്യം നമുക്കറിയാം g എന്ന ഫംഗ്ഷന്റെ മൂല്യം a ലെ രണ്ട് ഫംഗ്ഷനുകൾക്കും 0 ആണ് ഇവിടെ ഈ പദപ്രയോഗം ഇടത് വശത്ത് f g ആയി മാറും ഇവിടെ നമുക്ക് ഉള്ളത് f g എന്നത് f g ന് തുല്യമാണ് ഇത് a മുതൽ x വരെയാണ് ഇവിടെ ഈ ലിമിറ്റ് നമ്മൾ ഒരു x → a ആയി എടുക്കുന്നു ഇത് a ആയതിനാൽ a മുതൽ x വരെയുള്ള ഓപ്പൺ ഇന്റെർവെല്ലിൽ ഉൾപ്പെടുന്നു നമ്മൾ x സ്വാഭാവികമായും പോയാൽ a യിലേക്കും പോകും ഇവിടെ അടുത്തത് ഇതാണ് നമ്മൾ ഇവിടെ x → a f g എന്ന ലിമിറ്റ് എടുത്താൽ ഇത് a പ്ലസിലേക്ക് പോകുന്നു ലിമിറ്റ്ക്ക് തുല്യമായിരിക്കും കാരണം a → x ഇടവേളയിൽ ഉൾപ്പെടുന്നു a ലേക്ക് പോകും വലതുവശത്ത് നിന്ന് ഇവിടെ നിന്നും ഈ ഡെറിവേറ്റീവ് f g ഇപ്പോൾ നമുക്ക് ഇത് മറ്റേതെങ്കിലും പേരിൽ മാറ്റിസ്ഥാപിക്കാം അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായത് ഇവിടെ ക്രമീകരണത്തിൽ x ആണ് ഈ ലിമിറ്റ് ഈ അനുപാതം f g ആണെന്ന് നമ്മൾ കണ്ടു സാമാന്യവൽക്കരിച്ച മീൻ വാല്യൂ സിദ്ധാന്തം ഉപയോഗിച്ച് ഈ എൽ ഹോസ്പിറ്റൽ നിയമത്തിന്റെ തെളിവാണ് ഇത് ഈ എൽ ഹോസ്പിറ്റൽ നിയമത്തിന്റെ കുറച്ചുകൂടി പൊതുവായ ഒരു രൂപമുണ്ട് കാരണം വലതുവശത്ത് നിന്ന് x → a എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ a മുതൽ b വരെയുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഈ ഇടവേള എടുത്തതാണ് എഫ് ജി എന്നിവ ഓപ്പൺ ഇടവേള I ൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന രണ്ട് ഫംഗ്ഷനുകളാണെങ്കിൽ ഇത് കൂടുതൽ പൊതുവായ ഒരു രൂപമാണ് സ്വാഭാവികമായും അവ a യിൽ അടങ്ങിയിരിക്കുന്ന a യിലും ഈ f 0 ഉം ആണെങ്കിൽ ഇത് തുടരും ഇപ്പോൾ ഒരു അകത്ത് എവിടെയോ ഉണ്ട് ഇടവേള അതിർത്തിയിലല്ല ഈ ഇന്റെർവെല്ലിൽ നമുക്ക് f 0 g g ≠ 0 എന്നിവ ഉണ്ടെങ്കിൽ x ≠ a ആണെങ്കിൽ x a എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ നമുക്ക് g ന് അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നാൽ ഇത് x a അല്ലാതെ g അപ്രത്യക്ഷമാകില്ല ഈ സാഹചര്യത്തിലും x a ലിമിറ്റ് ഇവിടെ എളുപ്പത്തിൽ ഇടത് അല്ലെങ്കിൽ വലത് ആശയം ഇല്ലെന്ന് തെളിയിക്കാൻ കഴിയും വലതുവശത്തുള്ള ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ x → a f g എന്ന ലിമിറ്റ് ന് തുല്യമാണ് തെളിവ് നമ്മൾ മുമ്പ് ചെയ്തതിന് സമാനമാണ് കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് ഇടവേളകൾ പരിഗണിക്കാം x a ആയിരിക്കുമ്പോൾ a x x a ആയിരിക്കുമ്പോൾ x a ഈ രണ്ട് ഇടവേളകളിൽ നമ്മൾ മുമ്പത്തെ ഫലം പ്രയോഗിക്കും അത് x → a ഈ സാഹചര്യത്തിൽ ന് തുല്യമാണെന്ന് സ്ഥാപിക്കും എന്നിട്ട് ഈ ഇന്റെർവെല്ലിൽ നമ്മൾ ആ ഫലം പ്രയോഗിക്കുമ്പോൾ വലതുവശത്ത് നിന്ന് രണ്ട് ലിമിറ്റ്കളുടെയും നെഗറ്റീവ് വശങ്ങളിൽ നിന്ന് നമുക്ക് x → a ലഭിക്കും ഇടത് വശത്ത് നിന്ന് നമുക്ക് അതേ ഫലം ലഭിക്കും അത് ന് തുല്യമാണെന്ന് നിഗമനം ചെയ്യും മറ്റൊരു പ്രധാന പരാമർശം f g എന്നീ ഫംഗ്ഷനുകൾ x → a ൽ നിർവചിക്കപ്പെടാത്തപ്പോൾ ഈ എൽ ഹോസ്പിറ്റൽ റൂൾന്റെ നിയമവും ബാധകമാണ് മുമ്പത്തെ രണ്ട് ഫലങ്ങളിൽ നമ്മൾ എടുത്തത് f 0 ഉം g 0 ഉം ആണ് ആ സമയത്ത് ഫംഗ്ഷൻ മൂല്യങ്ങൾ 0 ആയിരുന്നു എന്നാൽ സാമ്പിൾ ഫംഗ്ഷനായി ഇത് ബാധകമാണെങ്കിൽ രണ്ട് ഫംഗ്ഷനുകൾ a യിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അവയുടെ ലിമിറ്റ് 0 ആണ് x → a ലിമിറ്റ് 0 ഉം ഉം ആണ് ഈ സാഹചര്യത്തിലും നമ്മൾ മുമ്പ് സ്ഥാപിച്ച അതേ ഫലം പ്രയോഗിക്കാൻ കഴിയും ആദ്യത്തെ ഡെറിവേറ്റീവുകളും a യിൽ 0 ആണെന്നും എഫ് ജി എന്നീ ഡെറിവേറ്റീവുകൾ എഫ് ജി എന്നീ ഫംഗ്ഷനുകളിൽ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നുവെന്നും പ്രധാനമായും തുടർച്ചയുടെ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ അനുപാതത്തിൽ എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കുന്നു f ' g' യിലേക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ വീണ്ടും പ്രയോഗിക്കാൻ നമ്മൾക്ക് കഴിയും കാരണം സമാനമായ സാഹചര്യങ്ങൾ ഇപ്പോൾ എഫ് ജി എന്നിവയ്ക്ക് സംഭവിക്കുന്നു കാരണം അവ രണ്ടും 0 ആയതിനാൽ ഇവിടെ ഈ ലിമിറ്റ് f g ഇരട്ട ഡെറിവേറ്റീവുകൾക്ക് തുല്യമാകുമെന്ന് ചട്ടം പറയുന്നു f g എന്നിവയുടെ ഇരട്ട ഡെറിവേറ്റീവുകളുടെ അനുപാതം x → a ഇത് വീണ്ടും കൂടുതൽ സാമാന്യവൽക്കരിച്ച രൂപമാണ് ഈ ലിമിറ്റ് f g എന്ന അനുപാതത്തിന്റെ ലിമിറ്റ് ഉപയോഗിച്ച് വിലയിരുത്താൻ കഴിയും എന്നാൽ ഈ രണ്ട് f ഉം g ഉം 0 അല്ലെങ്കിൽ x a ആയി 0 ആകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എൽ ഹോസ്പിറ്റലിന്റെ നിയമം പ്രയോഗിക്കാൻ കഴിയും അതേ ലിമിറ്റ് f ന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവിനെ g കൊണ്ട് ഹരിച്ചാൽ രണ്ടാമത്തെ ഡെറിവേറ്റീവ് x → a ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇത് തുടരാം ഉദാഹരണത്തിന് ഇവിടെ f " g" x a ൽ അപ്രത്യക്ഷമാകുന്നു നമുക്ക് ഈ എൽ ഹോസ്പിറ്റൽ റൂൾ വീണ്ടും പ്രയോഗിക്കാൻ കഴിയും എൽ ഹോസ്പിറ്റലിന്റെ നിയമവും ബാധകമാണ് ഇവിടെ മറ്റൊരു സാമാന്യവൽക്കരണം x → a എന്നത് ചില പരിമിത സംഖ്യയാണെന്ന് നമ്മൾ ചർച്ചചെയ്തിട്ടില്ല എന്നാൽ x → ∞ അല്ലെങ്കിൽ x → ∞ പരിമിതപ്പെടുത്തുമ്പോൾ ഒരാൾക്കും ഈ ഫലം പ്രയോഗിക്കാൻ കഴിയും ഇത് വളരെ പൊതുവായ ഒരു നിയമമാണ് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ തെളിയിക്കാത്ത ഈ ഇൻഫിനിറ്റി കേസ് എന്നാൽ ഒരാൾക്ക് എൽ ഹോസ്പിറ്റലിന്റെ നിയമവും പ്രയോഗിക്കാനും കഴിയും ഇപ്പോൾ ഈ എൽ ഹോസ്പിറ്റൽ റൂളിന്റെ ഇൻഫിനിറ്റി രൂപത്തിലേക്ക് ഇൻഫിനിറ്റിയിലേക്കുള്ള വിപുലീകരണം ഈ f → g g → x എന്നിവ x → a അല്ലെങ്കിൽ x → ± എന്നതിന് മുമ്പത്തെ കേസുമായി സമാനമാണെന്ന് കരുതുക പക്ഷേ ഇപ്പോൾ f → 0 g → 0 എന്നതിനുപകരം നമുക്കുള്ള വ്യത്യാസങ്ങൾ രണ്ടും ലേക്ക് പ്രവണത കാണിക്കുന്നു ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും അനുപാതത്തിന്റെ ലിമിറ്റ് അവയുടെ ഡെറിവേറ്റീവുകളുടെ അനുപാതത്തിന്റെ ലിമിറ്റ്യാകുമെന്ന് ഈ സാഹചര്യത്തിലും നമ്മൾക്ക് ഒരേ നിയമമുണ്ട് ഈ f g എന്നിവ 0 ലേക്ക് പോകുമ്പോൾ ഈ വലതുവശത്ത് ഇവിടെ വലതുവശത്തുള്ള ലിമിറ്റ് നിലവിലുണ്ട് ലിമിറ്റ് f g നിലവിലുണ്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഫലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാൽ അവ രണ്ടാണെന്നും അവ രണ്ട് രൂപങ്ങളാകാമെന്നും പൊതുവായ നിയമം എന്താണ് 00 ഫോം അല്ലെങ്കിൽ ∞ ഫോം രണ്ടായാലും x → a അല്ലെങ്കിൽ x → ± രണ്ട് ഫംഗ്ഷനുകളുടെയും അനുപാതത്തിന്റെ ലിമിറ്റ് അവയുടെ ഡെറിവേറ്റീവുകളുടെ അനുപാതത്തിന്റെ ലിമിറ്റ്ക്ക് തുല്യമായിരിക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ച മറ്റൊരു പ്രധാന പരാമർശമാണിത് ഇവിടെ ഈ ലിമിറ്റ് നിലവിലില്ലെങ്കിൽ ഡെറിവേറ്റീവുകളുടെ ലിമിറ്റ് നിലവിലില്ലെങ്കിൽ ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന f g ന്റെ ലിമിറ്റ് നിലവിലില്ലെന്ന് ഇതിനർത്ഥമില്ല നമ്മൾ ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്താണ് ഇവിടെയുള്ളതെന്ന് കണ്ടാൽ എന്താണ് സംഭവിക്കുന്നത് x ∞ പ്ലസ് ഇവിടെ പരിമിതമായ എന്തെങ്കിലും പോകുന്നു ന്യൂമറേറ്റർ ആണ് വീണ്ടും x കൊണ്ട് ഹരിക്കുന്നു നമ്മൾക്ക് ∞ ∞ ഫോം ഉണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ L'Hospital ന്റെ നിയമം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഇവിടെ നിങ്ങൾ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് 1 sin x cos x ആയി മാറും ഈ x ന്റെ ഡെറിവേറ്റീവിന്റെ ലിമിറ്റ് 1 ഉം ലിമിറ്റ് x ഉം ആയിരിക്കും x → നിർവചിച്ചിട്ടില്ലാത്തപ്പോൾ ഈ cos x മുതൽ x → 1 cos x എന്ന ലിമിറ്റ് അടിസ്ഥാനപരമായി ഇവിടെ ഈ ലിമിറ്റ് 1 cos x ഉം x ഉം നിർവചിച്ചിട്ടില്ല ഈ ലിമിറ്റ് നിലവിലില്ല എന്നാൽ ഇത് x sin x പോലുള്ള മറ്റ് ചില വഴികളിൽ നമ്മൾ വിലയിരുത്തുകയും ഇത് 1 sin x x എന്ന് മാറ്റിയെഴുതുകയും ചെയ്താൽ ഈ x നെ ഇവിടെ x ആയി വിഭജിച്ച് sin x ചെയ്ത് വേർതിരിക്കുന്നു നമുക്ക് 1 sin x x എന്നർത്ഥം വരുന്ന ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് നേരിട്ട് വിലയിരുത്താൻ കഴിയും x ആയിരിക്കുമ്പോൾ ഈ x ഇവിടെയും ഈ sin x പരിമിതമായ എന്തെങ്കിലും അവിടെ ഇരിക്കുകയാണെങ്കിൽ കൊണ്ട് ഹരിച്ചതും 0 ലേക്ക് പോകും ഇവിടെ രണ്ടാം ഭാഗം x ആയി sin x x 0 ലേക്ക് പോകും നമുക്ക് 1 0 ഉണ്ട് എന്നതിനർത്ഥം ഈ ലിമിറ്റ് 1 ഈ ലിമിറ്റ് നിലവിലില്ലാത്തതിനാൽ എൽ ഹോസ്പിറ്റലിന്റെ നിയമം പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമായിരുന്നു നമ്മൾക്ക് നിലവിലില്ല അത് അവകാശപ്പെടാമായിരുന്നു പക്ഷേ അത് തെറ്റായ നിഗമനങ്ങളാകുമായിരുന്നു ഡെറിവേറ്റീവുകളുടെ അനുപാതത്തിന്റെ ലിമിറ്റ് നമ്മൾ എഴുതിയ ഓരോ തവണയും നിയമത്തിൽ അതാണ് അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഇത് അനുവദിക്കുക അവയാണ് യഥാർത്ഥ സംഖ്യ നമ്മൾക്ക് ഇത് ഉണ്ട് ഈ സാഹചര്യത്തിൽ യുടെയും യുടെയും ഏതെല്ലാം വാല്യൂവിന് f കണ്ടിന്യൂവസ് ആകും എന്ന് നമുക്ക് കണ്ടെത്തണം ഇന്റെർവെല്ലിൽ π 2 π 2 f പ്രവർത്തനം തുടരുന്നു ഇപ്പോൾ തുടർച്ചയ്ക്കായി നമുക്ക് എന്താണ് വേണ്ടത് ഈ ഫംഗ്ഷന്റെ തുടർച്ചയ്ക്ക് ഈ ന്റെ ലിമിറ്റ് 1 ആയിരിക്കണം കാരണം x 0 ൽ ഫംഗ്ഷൻ 1 ആയി നിർവചിക്കപ്പെടുന്നു ഫംഗ്ഷൻ എല്ലായിടത്തും തുടർച്ചയായ 1 പ്രശ്നം x 0 ആണ് ഇവിടെ x ≠ 0 എന്നതിനായി ഈ നല്ല പ്രവർത്തനം നിർവചിച്ചിരിക്കുന്നു π മുതൽ ടാൻ വരെ ഇത് ഒരു തുടർച്ചയായ 0sin003 ഈ x → 0 1 പരിമിതപ്പെടുത്തിയാൽ ഈ പ്രവർത്തനം കണ്ടിന്യൂവസ് ആയ മാറും ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ α എന്നിവ കണക്കാക്കും α β ഈ പദപ്രയോഗത്തിന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഈ ലിമിറ്റ് 1 ന് തുല്യമാണ് ഇപ്പോൾ ഈ ലിമിറ്റ് ഇവിടെ കണക്കാക്കാം x → 0 നമ്മൾ x → 0 എടുക്കുമ്പോൾ ടാൻ 0 0 sin 0 ഉം x 3 ഉം 0 ആണ് അടിസ്ഥാനപരമായി നമ്മൾക്ക് 00 ഫോം ഉണ്ട് ഈ പദപ്രയോഗത്തിൽ നമുക്ക് L'Hospital ന്റെ നിയമം പ്രയോഗിക്കാം നമ്മൾ L'Hospital ന്റെ നിയമം പ്രയോഗിച്ചാൽ ആയി മാറുകയും 3x2 കൊണ്ട് ഹരിക്കുകയും ചെയ്യും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x3 3x2 ആയിത്തീരുകയും ഇവിടെ x → 0 എന്ന ലിമിറ്റ് എടുക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ഫംഗ്ഷന് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് sec തുടർന്ന് x → 0 ഈ sec x 1 ആണ് ഇവിടെ നിങ്ങൾക്ക് α β cos 0 ഉം 1 ആണ് നമ്മൾക്ക് ഇവിടെ α β 3 x2 കൊണ്ട് വിഭജിച്ച് x 0 ഇവിടെ നമുക്ക് ഈ 3x2 0 ലേക്ക് പോകുന്നു α 0 എന്നതിലേക്ക് വിഭജിച്ചിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ 1 ആയി പരിമിതപ്പെടുത്താനോ ഉള്ള ഒരേയൊരു സാധ്യത α 0 0 ന് തുല്യമാകുമ്പോൾ ആയിരിക്കും കാരണം നമുക്ക് 00 ലഭിക്കും ഫോം നമുക്ക് എൽ ഹോസ്പിറ്റലിന്റെ നിയമം കൂടുതൽ പ്രയോഗിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റ് 1 ആയിരിക്കുന്നതിന് ഇത് എന്നതിലേക്ക് കൂടുതൽ നീക്കാൻ നമുക്ക് എന്ത് സജ്ജമാക്കാം α തുല്യമാണെന്ന് സജ്ജമാക്കാം x → 0 ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും LHospital ന്റെ നിയമം വീണ്ടും പ്രയോഗിക്കാനും കഴിയും ഈ L ഹോസ്പിറ്റലിന്റെ നിയമം വീണ്ടും പ്രയോഗിക്കുന്നതിനാൽ α ന് നമ്മൾക്ക് ഇതിനകം ഒരു നിബന്ധന ലഭിച്ചു അത് 0 ന് തുല്യമാണ് ഇപ്പോൾ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ന്റെ ഡെറിവേറ്റീവ് 2α sin x 2α ക്ഷമിക്കണം sec x sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x ആയിരിക്കും കാരണം cos x നിങ്ങൾക്ക് -sin x നൽകും ഇത് a β sin x ആണ് ഇത് 6 x കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ ഏത് രൂപമാണ് ലഭിക്കുന്നതെന്ന് പരിശോധിച്ചാൽ ഈ ടാൻ x ഈ 0 ഇവിടെ sin x 0 ആക്കും നമുക്ക് ന്യൂമറേറ്ററിൽ 0 ലഭിക്കുന്നു 6 x കൊണ്ട് ഹരിക്കുന്നു അത് വീണ്ടും 0 ആണ് നമുക്ക് 00 ഫോം ലഭിക്കുന്നു ഈ പദപ്രയോഗത്തിൽ നമ്മൾക്ക് വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഇവിടെ x → 0 പരിമിതപ്പെടുത്തുക ഇവിടെ നമുക്ക് ഈ sec2 x ഉം tan x ഉം ഉണ്ട് ഈ sec2x 2sec x sec x tan x നൽകും അത് 4x 4 ആൽഫയും സെക്കന്റ് x സെക്കന്റ് x ടാൻ x ഉം ആയി മാറുന്നു 2sec2 x - β cos x ആയി മാറുക ഇവിടെ 6 കൊണ്ട് ഹരിക്കുക കാരണം ഇത് 6 x ഉം ഡെറിവേറ്റീവ് 6 ഉം ആണ് ഇപ്പോൾ നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ ഇവിടെ എന്താണ് മൂല്യം ഈ sec x 1 tan x 0 ആയിരിക്കും ഈ എക്സ്പ്രഷൻ 0 ആയിത്തീരും ഇവിടെ x → 0 ഇത് 2α പോലെയാകുകയും പിന്നീട് β ആകുകയും ചെയ്യും ഇത് ന്യൂമറേറ്ററിൽ നമുക്ക് 2α ലഭിക്കുകയും 6 കൊണ്ട് ഹരിക്കുകയും ലിമിറ്റ് x → 0 ആയി വിഭജിക്കുകയും ചെയ്യുന്നു ഈ മൂല്യം 1 ആയി ലഭിക്കാൻ നമ്മൾ 2α β 6 സജ്ജമാക്കേണ്ടതുണ്ട് മറ്റൊരു വ്യവസ്ഥ നമ്മൾക്ക് 2α β 6 ലഭിച്ചു നിങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങളും പരിഹരിച്ചാൽ α β 0 2α β 6 നമുക്ക് α 2 β 2 എന്നിവ ലഭിക്കും α β എന്നിവയുടെ ഈ മൂല്യങ്ങൾക്ക് ഈ പ്രവർത്തനം കണ്ടിന്യൂവസ് ആയ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇവിടെ ലിമിറ്റ് 1 ആയിത്തീരും ഫംഗ്ഷൻ x 0 ൽ 1 ആയി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ പിസ്കുനോവിന്റെ ഇന്റഗ്രൽ എ ഡിഫറൻഷ്യൽ ആന്റ് ഇന്റഗ്രൽ കാൽക്കുലസ് ഇത് വോളിയം 1 ക്രെയിസിഗ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും തോമസ് കാൽക്കുലസും ഈ ഇൻഡിറ്റർമിനെറ്റ് ഫോംസ് ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത് അവ എന്നിങ്ങനെയുള്ള നിരവധി ഫോംസ് എടുത്തേക്കാം 00 അല്ലെങ്കിൽ ∞ ∞ ഫോം ഉള്ളപ്പോൾ അത്തരം ലിമിറ്റ്കൾ എങ്ങനെ കണക്കാക്കാമെന്ന് ഇന്ന് നമ്മൾ പഠിച്ചത് ഈ ലിമിറ്റ് കണക്കാക്കാൻ ഉപയോഗപ്രദമായ L'Hospital ന്റെ നിയമം f g എന്ന അനുപാതത്തിന് ഇവിടെ 00 അല്ലെങ്കിൽ ∞ ∞ ഫോം ഉണ്ടോ എന്നതാണ് ഈ ലിമിറ്റ് അനുപാതങ്ങളുടെ ലിമിറ്റ്ക്ക് തുല്യമാകുമെന്ന് പറയുന്ന ഈ നിയമം നമുക്ക് പ്രയോഗിക്കാൻ കഴിയും വീണ്ടും ഈ എഫ് ജി എന്നിവ രണ്ടും 00 അല്ലെങ്കിൽ ∞ ∞ ഫോം ആകുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ നമുക്ക് വീണ്ടും റൂൾ പ്രയോഗിക്കാൻ കഴിയും പിന്നെ ഈ ലിമിറ്റ് രണ്ടാമത്തെ ഡെറിവേറ്റീവുകളുടെ അനുപാതത്തിന്റെ ലിമിറ്റ്ക്ക് തുല്യമാണ് നമുക്ക് ലിമിറ്റ് ലഭിക്കുന്നതുവരെ തുടരാം എന്നാൽ ആ സുപ്രധാന കാര്യം ഈ ലിമിറ്റ്കൾ നിലവിലുണ്ടെങ്കിൽ ഡെറിവേറ്റീവുകളുടെ ആ ലിമിറ്റ്കൾ നിലവിലില്ലെങ്കിൽ നമുക്ക് നിഗമനം ചെയ്യാൻ കഴിയാത്തപ്പോൾ ഈ നിയമം സാധുതയുള്ളതാണെന്നതാണ് അപ്പോൾ യഥാർത്ഥ ലിമിറ്റ് നിലവിലില്ലെന്ന് നമ്മൾക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല ഈ നിയമം വളരെ ഉപയോഗപ്രദമായ ഒരു നിയമമാണ് അടുത്ത പ്രഭാഷണത്തിൽ മറ്റ് ഫോംസ് ഉദാഹരണത്തിന് 0 തുടങ്ങിയവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും